ടു പോർട്ട് ഉപയോഗിച്ചുള്ള ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ ചിത്രം ഇപ്പോൾ നമുക്കറിയാം ശരിയായ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമുക്ക് MOS ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ അതിന്റെ സ്മോൾ സിഗ്നൽ രൂപത്തിൽ സർക്യൂട്ട് കൊണ്ടുവരികയും അതിന്റെ ഇൻക്രിമെന്റൽ ഫോമിൽ ടു പോർട്ട് ആംപ്ലിഫയർ ആകുകയും ചെയ്യും ഈ ചർച്ചയിലുടനീളം ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന പാരാമീറ്ററുകളുള്ള MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് തുടരും ഇവ രണ്ടും ചേർന്ന് കറൻറ് ഫാക്ടർ 100 മൈക്രോ ആമ്പിയേഴ്സ് പെർ വോൾട്ട് സ്ക്വയറും ത്രെഷോൾഡ് വോൾട്ടേജ് 1 വോൾട്ടും ആയിരിക്കും അതിനാൽ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ടു പോർട്ട് ആംപ്ലിഫയറിന് ഈ ഇൻക്രിമെന്റൽ ചിത്രം ഉണ്ടാകും ഇവിടെ ഇത് VGS ആണ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗ്രൌണ്ടിന്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ അനുമാനിക്കുന്നു ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതുപോലുള്ള പോയിന്റ് കാണിക്കുന്നത് വളരെ സാധാരണമാണ് കാരണം ഈ കോമൺ പോയിന്റിൽ ധാരാളം ടെർമിനലുകൾ ബന്ധിപ്പിക്കും കൂടാതെ എല്ലാം ബന്ധിപ്പിക്കുന്ന രേഖകൾ വരച്ചാൽ സ്കീമാറ്റിക് ഡയഗ്രം വളരെ ബുദ്ധിമുട്ടുള്ളതാകും അതിനാൽ ഡയഗ്രം വൃത്തിയായി സൂക്ഷിക്കുക ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതിനർത്ഥം അത് ഇതിലേക്ക് കണക്റ്റ് ചെയ്തുവെന്നാണ് കൂടാതെ ലോഡും ഇതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്നു ഇത് തീർച്ചയായും ഗേറ്റ് ഡ്രെയിൻ സൊഴ്സാണ് ഇതാണ് സാച്ചുറേഷൻ റീജ്യണലിലെ MOS ഇപ്പോൾ ഇത് വളരെ ലളിതമാണ് ഈ Vs എല്ലാം VGS ആയി പ്രത്യക്ഷപ്പെടുന്നു കൂടാതെ RL ന് കുറുകെയുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് മൈനസ് gm RL തവണ Vs ആണ് ഇതാണ് ഗെയിൻ വിശദീകരണത്തിനായി ഈ ഇൻപുട്ട് സോഴ്സ് Rs നൂറു കിലോ ഓമും ലോഡ് RL ഉം നൂറു കിലോ ഓം ആണെന്ന് കരുതുക ഇപ്പോൾ നമുക്ക് പറയാം നമുക്ക് ആവശ്യമുള്ള ഗെയിന്റെ വാല്യൂ ഇരുപത് ആണെന്നും ഈ സർക്യൂട്ടിന്റെ ഗെയിൻ നെഗറ്റീവ് ആയതിനാൽ ഗെയിൻ മൈനസ് 20 ആയിരിക്കും ഇത് മൈനസ് g m R L ന് തുല്യമായിരിക്കും ഇതിൽ നിന്ന് ആവശ്യമുള്ള gm ന്റെ മൂല്യം കണ്ടുപിടിക്കുക gm 20 ഹരിക്കണം 100 kilo ohms ആയിരിക്കും ഇത് നിങ്ങൾക്ക് 200 മൈക്രോ സീമെൻസ് നല്കും ഇപ്പോൾ സാച്ചുറേഷനിൽ MOS ട്രാൻസിസ്റ്ററിന്റെ gm എന്നത് mu n Cox W ബൈ VGS മൈനസ് VT ആണെന്ന് മനസ്സിലായി ഇവ രണ്ടും കൂടി ചേർത്താൽ VGS മൈനസ് VT of 2 volts ഉപയോഗിച്ച് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യേണ്ടതുണ്ട് കാരണം ഈ ഭാഗം 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയറാണ് ഇത് 2 വോൾട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് 200 മൈക്രോ സീമെൻസിന്റെ gm ലഭിക്കും VT ഒരു വോൾട്ട് ആണെന്ന് നമുക്കറിയാം അതിനാൽ VGS 3 വോൾട്ട് വേണം MOS ട്രാൻസിസ്റ്ററിൽ കറൻറ് പ്രവാഹത്തിന് ഇത് ഉപയോഗപ്രദമാണ് സാച്ചുറേഷൻ റീജിയൻ കറൻറ് സമവാക്യം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് കാരണം അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കൂടാതെ നിങ്ങൾ VGS മൈനസ് VT സമം 2 volts എന്നു കൊടുത്താൽ ഈ കറൻറ് ഫാക്ടർ 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയർ ആയിരിക്കും നിങ്ങൾക്ക് 200 മൈക്രോആമ്പിയർ ലഭിക്കും അതിനാൽ ഇവ രണ്ടും നിങ്ങൾക്ക് MOS ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നല്കുന്നു VGS 3 വോൾട്ടും ID 200 മൈക്രോ ആമ്പിയറും ആയിരിക്കണം ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിലെ ഓപ്പറേറ്റിങ് പോയിന്റ് എങ്ങനെ നേടാമെന്ന് നോക്കാം ഇതാണ് MOS ട്രാൻസിസ്റ്റർ ഇതിന്റെ ത്രെഷോൾഡ് വോൾട്ടേജ് 1 വോൾട്ട് അതിന്റെ കറൻറ് ഫാക്ടർ 100 മൈക്രോ ആമ്പിയർ പെർ വോൾട്ട് സ്ക്വയർ ആണ് ഇപ്പോൾ നമുക്ക് 3 വോൾട്ടുകളുടെ VGS ഉം VDS ഉം ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ കണ്ടു ഞാൻ ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണിക്കുന്നു അതിനെ VDS0 എന്ന് വിളിക്കുന്നു ഓപ്പറേറ്റിംഗ് പോയിന്റിലെ VDS അത് എന്തായിരിക്കണം ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലായിരിക്കണമെന്ന് നമുക്കറിയാം അതിനാൽ VDS0 എന്നത് VGS മൈനസ് VT യേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം ഇത് 2 വോൾട്ട് ആണ് അതിനാൽ ഇത് എന്തായാലും 2 വോൾട്ടിനേക്കാൾ കൂടുതലായിരിക്കണം ഇതും 3 വോൾട്ട് ആണെന്ന് വിശദീകരിക്കുന്നതിനായി ഞാൻ അനുമാനിക്കാം ഇത് ഒരു ഉദാഹരണമാണ് ഇത് രണ്ട് വോൾട്ടിനേക്കാൾ കൂടുതലാകാം നമുക്ക് മൂന്ന് വോൾട്ട് എടുക്കാം അതിനാൽ ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ശരിയായി സജ്ജമാക്കുന്നു അതിനാൽ ഈ സർക്യൂട്ട് സജ്ജമാക്കുകയാണെങ്കിൽ നമുക്ക് 200 മൈക്രോ ആമ്പിയറുകൾ MOS ട്രാൻസിസ്റ്ററിലൂടെ ഒഴുകും പക്ഷേ ഇത് നമുക്ക് ആവശ്യമുള്ള സർക്യൂട്ട് അല്ല നമുക്ക് ഏത് സർക്യൂട്ട് ആണ് വേണ്ടത് നമുക്ക് ആവശ്യമുള്ള സർക്യൂട്ട് അതിന്റെ ഇൻക്രിമെന്റൽ ഇക്യുവാലെൻറ് അല്ലെങ്കിൽ അതിന്റെ സ്മോൾ സിഗ്നൽ ഇക്യുവാലെൻറ് അങ്ങനെയായിരിക്കണം അതിനാൽ അതിനർത്ഥം ഇൻപുട്ടും ലോഡും സർക്യൂട്ടിലേക്ക് ഉചിതമായി ബന്ധിപ്പിക്കണം എന്നാണ് ഇപ്പോൾ ഈ സർക്യൂട്ട് കൂടുതൽ സങ്കീർണ്ണവും ബുദ്ധിമുട്ടുള്ളതുമായി മാറുന്നു ഇവിടെ ഒരു പ്രയാസവുമില്ല ഇവ ചെയ്യാൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നതാണ് കാര്യം ട്രാൻസിസ്റ്ററിനായി നമുക്ക് ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരിക്കേണ്ടതുണ്ട് മൊത്തത്തിലുള്ള സർക്യൂട്ട് ചില സ്മോൾ സിഗ്നൽ ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട് അതായത് ഇത് ചില ഫംഗ്ഷനുകൾ ചെയ്യുന്നു ഓപ്പറേറ്റിംഗ് പോയിന്റുകൾ സജ്ജീകരിക്കുന്നതിനുള്ള നിരവധി വഴികളും ഫംഗ്ഷൻ നേടുന്നതിനുള്ള നിരവധി മാർഗങ്ങളുമാണ് അവ അതിനാൽ ആമുഖ പ്രഭാഷണത്തിൽ ഞാൻ സൂചിപ്പിച്ച സർക്യൂട്ടുകളുടെ എണ്ണവും വളരെ വലുതാണ് കാരണം നിങ്ങൾക്ക് ഒരു കൂട്ടം ഓപ്പറേറ്റിംഗ് പോയിന്റ് സജ്ജീകരണങ്ങളും മുഴുവൻ ഫംഗ്ഷനാലിറ്റികളും എടുത്ത് അവയെ ഒന്നിച്ച് സംയോജിപ്പിക്കാൻ കഴിയും അതിനാൽ ഈ ഓരോ കാര്യത്തിനും പിന്നിലെ യുക്തി മനസ്സിലാക്കുക എന്നതാണ് പ്രധാന കാര്യം അതിനാൽ ഇപ്പോൾ നമുക്ക് പോർട്ട് ബൈ പോർട്ട് ആയി പോകാം ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ VGS ഓപ്പറേറ്റിംഗ് പോയിന്റിനായി ഇത് 3 വോൾട്ട് ആയിരിക്കണം ഒപ്പം ഇൻക്രിമെന്റൽ ചിത്രത്തിൽ നമുക്ക് അത് Vs ആയിരിക്കണം അതായത് അത് സോഴ്സ്മായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഞാൻ ഇവ രണ്ടും കൂട്ടുകയാണെങ്കിൽ ഇൻക്രിമെന്റൽ സോഴ്സ് പൂജ്യമാകുമ്പോൾ 3 വോൾട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റായിരിക്കും ഇൻക്രിമെൻറ് സോഴ്സ് പ്രയോഗിക്കുമ്പോൾ VGS ലുടനീളം ഇൻക്രിമെന്റായി Vs ദൃശ്യമാകും അതിനാൽ എങ്ങനെയെങ്കിലും എനിക്ക് VGS നെ ഇതിന് തുല്യമാക്കണം അത് വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നുന്നില്ല കാരണം എനിക്ക് 3 വോൾട്ട് ലഭിക്കാൻ ഒരു വോൾട്ടേജ് സോഴ്സും Vs ന് മറ്റൊരു വോൾട്ടേജ് സോഴ്സ്മുണ്ട് തീർച്ചയായും ഈ Vs എല്ലായ്പ്പോഴും ഈ Rs ന്റെ കൂടെ വരുന്നു എന്നാൽ രണ്ട് വോൾട്ടേജ് സോഴ്സ്കൾ കൂട്ടുന്നത് എളുപ്പമാണ് നമ്മൾ ചെയ്യേണ്ടത് അവയെ സീരീസിൽ കൊണ്ടുവരിക എന്നതാണ് അതിനാൽ നമ്മൾ എന്ത് ചെയ്യും എനിക്ക് 3 വോൾട്ട് ഉണ്ട് എനിക്ക് Vs ഉം Rs ഉം ഉണ്ട് Rs സീരീസിൽ 100 കിലോ ഓംസ് ആണ് ഇപ്പോൾ ഞാൻ ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിലേക്ക് കണക്റ്റുചെയ്ത് സോഴ്സ് ഗ്രൌണ്ട് ചെയ്താൽ ഇവിടെ ഗേറ്റ് സോഴ്സ് വോൾട്ടേജായി ദൃശ്യമാകുന്നത് എന്തെന്നാൽ Vs പൂജ്യമാകുമ്പോൾ അല്ലെങ്കിൽ സിഗ്നൽ പൂജ്യമാകുമ്പോൾ ഇത് മൂന്ന് വോൾട്ടിന് തുല്യമായിരിക്കും ഇതാണ് ശരിക്കും നമുക്ക് വേണ്ടത് നമുക്ക് സിഗ്നൽ പൂജ്യമാകുമ്പോഴാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ലഭിക്കുന്നത് നിങ്ങൾ ഇൻക്രിമെൻറ് ചിത്രം നോക്കിയാൽ ഈ മൂന്ന് വോൾട്ട് പോകും നമ്മൾ ഇൻക്രിമെൻറ് മാത്രമായിരിക്കും പരിഗണിക്കുക ഈ Vs ആയിരിക്കും ഇൻക്രിമെന്റ് അതിനാൽ ഇത് നിങ്ങൾക്ക് മൂന്ന് വോൾട്ടുകളുടെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് VGS നൽകുന്നുവെന്നും ഈ 3 വോൾട്ട് ഫിക്സ് ചെയ്തതിനാൽ ഇത് ഇൻപുട്ട് വശത്തെ ചുവടെയുള്ള ചിത്രത്തോട് സാമ്യമുള്ളതാണെന്നും അതിന്റെ ഇൻക്രിമെന്റ് പൂജ്യമാണെന്നും നിങ്ങൾക്കെല്ലാവർക്കും ബോധ്യമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറുന്നു ഗേറ്റിനും സോഴ്സിനും ഇടയിൽ നിങ്ങൾക്ക് Vs Rs എന്നിവ ഉണ്ടാകും നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് VGS നെ വിലയിരുത്താം അതിലേക്ക് കറന്റൊന്നും ഒഴുകുന്നില്ല ഇവിടെയുള്ള വോൾട്ടേജ് മൂന്ന് വോൾട്ട് പ്ലസ് Vs ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഈ ക്രമീകരണം മൂന്ന് വോൾട്ടുകളുടെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റും VGS നിടയിൽ Vs ന്റെ വർദ്ധനവും നൽകുന്നു അതിനാൽ ആ ഭാഗം ശരിയാണ് ഇപ്പോൾ നമ്മൾ മറുവശത്ത് അതായത് രണ്ടാമത്തെ പോർട്ട് അല്ലെങ്കിൽ ഡ്രെയിൻ സൈഡിനായി എന്താണ് ചെയ്യുന്നത് ഇത് സാച്ചുറേഷനിൽ നിലനിൽക്കാൻ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ഡ്രെയിൻ സോഴ്സ് എന്നിവയിലുടനീളം 3 വോൾട്ട് അല്ലെങ്കിൽ കുറച്ച് വോൾട്ടേജ് VDS0 ആണ് നമുക്ക് വേണ്ടതെന്ന് ഓർമ്മിക്കുക മാത്രമല്ല ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ നമുക്ക് RL ആവശ്യമാണ് അതിനാൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യുന്നതിനുള്ള പല വഴികളും പരിഗണിക്കാം സാധാരണയായി ഞാൻ ഇത് ചെയ്യാൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുമ്പോൾ അവർ ഇതിനും അതിനും ഇടയിൽ RL ഇടാൻ നിർദ്ദേശിക്കുന്നു ശരിക്കും അത് പ്രവർത്തിക്കില്ല ആ പ്രത്യേക ഇതരമാർഗ്ഗം ഞാൻ കാണിക്കാം എനിക്ക് ഇവിടെ മൂന്ന് വോൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ RLനെ ബന്ധിപ്പിക്കുന്നുവെങ്കിൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ എന്ത് സംഭവിക്കും ഇതാണ് ഓപ്പറേറ്റിംഗ് പോയിൻറ് വോൾട്ടേജ് ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഇത് ഷോർട്ട് ആണ് എന്തുകൊണ്ടാണ് ഇത് ഷോർട്ടെന്ന് നിങ്ങൾക്ക് മനസിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ സോഴ്സ് ഇൻക്രിമെന്റ് ചെയ്തിട്ടില്ല ഇത് ഒരു ഫിക്സ്ഡ് സൊഴ്സാണ് ഇത് 3 വോൾട്ട് സൊഴ്സാണ് ഇത് വർദ്ധിപ്പിച്ചിട്ടില്ല അതിനാൽ ഇത് ഒരു ഷോർട്ട് ആയിരിക്കും അതിനാൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ RL ന് പകരം വാസ്തവത്തിൽ RL ഉം അവിടെ ഉണ്ടാകും പക്ഷേ ഇത് പ്രസക്തമല്ല കാരണം ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ നമുക്ക് ഒരു ഷോർട്ട് ഉണ്ടാകും ഇതിൽ നിന്നുള്ള ഇൻക്രിമെന്റൽ കറൻറ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ടിലേക്ക് പോകുന്നു കൂടാതെ RL ലുടനീളം ഒരു വോൾട്ടേജും ഉണ്ടാകില്ല അതിനാൽ ഇത് ഉപയോഗപ്രദമല്ല അതിനാൽ അല്പം യുക്തിസഹമായി നോക്കുകയാണെങ്കിൽ ഇതിനുള്ള ശരിയായ മാർഗം ഇനിപ്പറയുന്നവയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന വോൾട്ടേജ് സോഴ്സ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം ഒപ്പം ഇൻക്രിമെന്റൽ ചിത്രത്തിൽ ഈ പോയിന്റ് ഗ്രൌണ്ട് ചെയ്തിരിക്കണം ഡ്രെയിനും ഗ്രൌണ്ടിനും ഇടയിലുള്ള റെസിസ്റ്റർ RL നമുക്ക് ആവശ്യമുണ്ട് ഇത് ഇൻക്രിമെന്റൽ ചിത്രത്തിലും ഇതാണ് അതിനാൽ നമ്മൾ എന്തുചെയ്യും നമ്മൾ ഈ RL നെ സീരീസിൽ ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മൂന്ന് വോൾട്ട് ഗ്രൌണ്ട് ആയി തീരുന്നു കൂടാതെ ഡ്രെയിനിനും സോഴ്സിനും ഇടയിൽ RL ദൃശ്യമാകുന്നു അതിനാൽ ഇത് ടോപ്പോളജിക്കലായി ശരിയാണ് അതായത് നിങ്ങൾ ഇൻക്രിമെന്റൽ ചിത്രം നോക്കിയാൽ ഞാൻ ഇവിടെ മോസ്ഫെറ്റ് കാണിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് വളരെ സാധാരണമാണ് ഇതൊരു ഇൻക്രിമെന്റൽ ചിത്രമാണ് എന്നാണ് നമുക്ക് മനസിലാകുന്നത് MOS ട്രാൻസിസ്റ്ററിനെ ഇൻക്രിമെൻറൽ ഇക്യുവാലെൻറ് സർക്യൂട്ട് ഉപയോഗിച്ച് നിങ്ങൾ മാറ്റണം അതൊക്കെയാണ് gm gds തുടങ്ങിയവ MOS ട്രാൻസിസ്റ്ററിൽ എന്തുതന്നെ ഉണ്ടായാലും സൌകര്യത്തിനായി നിങ്ങൾ ടു പോർട്ട് ചിത്രം കൂടുതൽ പ്രാവശ്യം കാണിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഒരു മോസ്ഫെറ്റ് കാണിക്കുന്നു പക്ഷേ ഇത് ഇൻക്രിമെന്റൽ ചിത്രമാണെങ്കിൽ അത് മോസ്ഫെറ്റിനു തുല്യമായ ഇൻക്രിമെന്റൽ ഇക്യുവാലെന്റ്റ് ആയിരിക്കണം അതിനാൽ ഇൻക്രിമെന്റൽ ചിത്രത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെയാണ് ഇതിന് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒഴുകുന്ന കറൻറ് എത്രയാണെന്ന് ഓർക്കുക അതിനെ 200 മൈക്രോ ആമ്പിയറുകളുള്ള ID0 ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് എന്ന് വിളിക്കട്ടെ അതിനാൽ ഞാൻ ഇതുപോലുള്ള RL മായി സീരീസിൽ കണക്റ്റു ചെയ്യുകയാണെങ്കിൽ എനിക്ക് ID naught തവണ RL ഉണ്ടാകും കൂടാതെ RL 100 കിലോ ഓം ആണ് അതിനാൽ ID0 തവണ RL 20 വോൾട്ട് ആയിരിക്കും അത് വളരെ വലിയ വോൾട്ടേജ് പോലെ കാണപ്പെടുന്നു ഇത് ഇന്നത്തെ സംയോജിത സർക്യൂട്ടുകൾക്കാണ് പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല നമ്മൾ ആംപ്ലിഫയറുകളുടെ അടിസ്ഥാന തത്വങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഇപ്പോൾ ഇവിടെ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് വ്യക്തമായി കാണുക നിങ്ങൾ ഇവിടെ മൂന്ന് വോൾട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 വോൾട്ട് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് 3 വോൾട്ട് മൈനസ് RL നു കുറുകേയുള്ള ഡ്രോപ്പ് ലഭിക്കും നിങ്ങൾക്ക് സർക്യൂട്ട് പരിഗണിച്ച് യഥാർത്ഥത്തിൽ ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ട്രയോഡ് മേഖലയിലേക്ക് തള്ളപ്പെടും യഥാർത്ഥത്തിൽ ഈ വോൾട്ടേജ് സോഴ്സ് ഡ്രെയിനിലും സോഴ്സിനും നേരെ കുറുകേ ഉണ്ടാകും അതിനാൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് VDS നും തുല്യമാണ് ഇപ്പോൾ ഈ വോൾട്ടേജ് മൂന്ന് വോൾട്ട് ആയിരിക്കരുത് പക്ഷേ ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് VDS ഉം പ്ലസ് ലോഡ് റെസിസ്റ്ററിലുടനീളം ഉള്ള ഡ്രോപ്പിനും തുല്യമാണ് അതിനാൽ നിങ്ങൾക്ക് ലോഡ് റെസിസ്റ്ററിലുടനീളം ഇരുപത് വോൾട്ട് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 3 വോൾട്ട് വേണമെങ്കിൽ ഇത് 23 വോൾട്ടിന് തുല്യമായിരിക്കണം അതിനാൽ അവസാനമായി നമ്മുടെ ബേസിക് ആംപ്ലിഫയറിന്റെ ചിത്രം ഇതുപോലെ കാണപ്പെടുന്നു നമുക്ക് ഇൻപുട്ട് സോഴ്സ്ണ്ട് അത് ഗേറ്റ് സോഴ്സ് വോൾട്ടേജിനായി ഓപ്പറേറ്റിംഗ് പോയിന്റ് നൽകുന്ന ഒരു വോൾട്ടേജ് സോഴ്സ്മായി സീരീസിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു നമ്മൾ അതിനെ MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് സോഴ്സ്മായി ബന്ധിപ്പിക്കുന്നു മറുവശത്ത് നിങ്ങൾ RL നെ സീരീസിൽ ഡ്രെയിനുമായി ബന്ധിപ്പിക്കുന്നു ശരിയായ ഓപ്പറേറ്റിംഗ് പോയിൻറ് വോൾട്ടേജ് VDS നൽകുന്നതിന് അത് എന്ത്തന്നെയായാലും അതിനെ VDS0 എന്ന് വിളിക്കാം അപ്പോൾ ഈ വോൾട്ടേജ് VDS0 പ്ലസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്രെയിൻ കറന്റിനു തുല്യമായിരിക്കണം ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്രെയിൻ കറന്റ് R L വഴി ഒഴുകുന്നു അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡ്രെയിൻ കറന്റ് ID0 തവണ RL ആണ് അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് കേസിൽ എന്ത് സംഭവിക്കും ഞാൻ അത് നീല നിറത്തിൽ കാണിക്കാം ഓപ്പറേറ്റിംഗ് പോയിൻറ് കേസിൽ ഈ Vs പൂജ്യവും VGS എന്നത് VGS 0 ഉം VDS എന്നത് V DS 0 ഉം ആയിരിക്കും കൂടാതെ ഇതിനു കുറുകെ ID0 RL എന്ന ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാകും ഞാൻ ഇൻക്രിമെൻറ് ചിത്രം ചുവപ്പിൽ കാണിക്കാം ഇവിടെ ഒരു ഇൻക്രിമെന്റൽ സോഴ്സ് മാത്രമേയുള്ളൂ അത് V s ആണ് അതിനാൽ ഇത് Vs ആയിരിക്കും ഇത് പൂജ്യമായിരിക്കും അതിനർത്ഥം ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു ഇതും പൂജ്യമാണ് ഇതും ഒരു ഷോർട്ട് സർക്യൂട്ടായി മാറുന്നു അതിനാൽ ഇൻക്രിമെന്റൽ ചിത്രം നമുക്ക് ആവശ്യമുള്ളതിലേക്ക് ചുരുങ്ങുന്നു ഞാൻ വീണ്ടും ഇവിടെ MOS ട്രാൻസിസ്റ്റർ കാണിക്കാം അതിനർത്ഥം ഇൻക്രിമെന്റൽ കണക്കുകൂട്ടലുകൾക്കായി നിങ്ങൾ MOS ട്രാൻസിസ്റ്ററിന്റെ സ്മോൾ സിഗ്നൽ അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ ഇക്യുവാലെൻറ് സബ്സ്റ്റിട്യൂട്ട് ചെയ്യണം എന്നാണ് അതിനാൽ ഇതാണ് നമ്മുടെ ബേസിക് ആംപ്ലിഫയർ ഇത് പ്രവർത്തിക്കുന്നു പക്ഷേ ഇതിന് നിരവധി പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ വരാനിരിക്കുന്ന പാഠങ്ങളിൽ കൈകാര്യം ചെയ്യുന്നു പക്ഷേ ഈ ആംപ്ലിഫയറിലേക്ക് നയിക്കുന്ന യുക്തിപരമായ വാദങ്ങൾ ശരിയാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്ത സർക്യൂട്ടുകൾ സംയോജിപ്പിക്കുന്ന ഈ ലോജിക്കൽ ആർഗ്യുമെന്റുകൾ വളരെ പ്രധാനമാണ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വ്യത്യസ്ത സർക്യൂട്ടുകൾ മനസിലാക്കാനും സ്വന്തമായി സർക്യൂട്ടുകൾ കൊണ്ടുവരാനും കഴിയുന്നത് അതിനാൽ ദയവായി അവയെല്ലാം ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക